മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രെഷൻ മോഡൽ ബിൽഡിങ് ആൻഡ് സെലക്ഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സമ്മറൈസ് ചെയ്ത മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രെഷന്റെ ഇമ്പ്ലിമെന്റഷൻ ലെക്ച്ചറിലേക്ക് സ്വാഗതം ഒരു ലളിതമായ ലീനിയർ റിഗ്രഷൻ മോഡൽ നിർമ്മിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ നമ്മൾ പരിശോധിച്ചുഅതോടൊപ്പം ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ഒരു ഡിപെൻഡന്റ് വേരിയബിളിനൊപ്പം എങ്ങനെ റിഗ്രെസ്സ് ചെയ്യാമെന്നും നമ്മൾ കണ്ടു ഇതിന്റെ ഭാഗമായി നമ്മൾ നിർമ്മിച്ച മോഡലിനെ എങ്ങനെ വിലയിരുത്താമെന്നും അതിന് കീഴിൽ മോഡൽ സമ്മറി എങ്ങനെ വ്യാഖ്യാനിക്കാമെന്നും പ്രധാനപ്പെട്ട വേരിയബിളുകൾ എങ്ങനെ തിരിച്ചറിയാമെന്നും നമ്മൾ പരിശോധിച്ചു റെസിജുവൽ അനാലിസിസ് എങ്ങനെ നടത്തണം മോഡലിന് റിഫൈൻമെൻറ് ആവശ്യമുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം എന്നതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മളൊരു റിഫൈൻഡ് മോഡൽ നിർമിച്ചു ഈ പ്രഭാഷണത്തിൽ നമ്മൾ ഇതെല്ലാം ഒന്നിലധികം ഇൻഡിപെൻഡന്റ് വേരിയബിളുകളിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് നോക്കാം ഈ പ്രോസസ്സിനെ നമ്മൾ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് വിളിക്കുന്നു ഇതിൽ നമ്മൾ ഒരു ഡിപെന്റന്റ് വേരിയബിളും ഒന്നിലധികം ഇൻഡിപെൻഡന്റ് വേരിയബിളുകളും ഉപയോഗിച്ച് ലീനിയർ മോഡൽ നിർമ്മിക്കാൻ പോകുന്നു നമ്മൾ മോഡൽ സമ്മറി നോക്കുകയും അനാവശ്യമായ വേരിയബിളുകൾ തിരിച്ചറിയുകയും അവ ഒഴിവാക്കി മോഡൽ പുനർനിർമ്മിക്കുകയും ചെയ്യും മോഡൽ നിർമ്മിക്കുന്നതിനായി വേരിയബിളുകളുടെ സബ്സെറ്റ് എങ്ങനെ തിരിച്ചറിയാമെന്നും ഇതോടൊപ്പം നമുക്ക് നോക്കാം ഇതിനെ മോഡൽ സെലക്ഷൻ എന്ന് വിളിക്കുന്നു അതിനാൽ ഡാറ്റ ലോഡുചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇവിടെ "nyc" എന്ന ഡാറ്റാ സെറ്റ് നിങ്ങൾക്ക് ഒരു "csv" ഫോർമാറ്റിലാണ് നൽകുന്നത് കൂടാതെ ഡാറ്റാസെറ്റ് ലോഡുചെയ്യാൻ നമ്മൾ read csv ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പോകുന്നു read csv ഫംഗ്ഷനുള്ള ഇൻപുട്ടുകൾ മുൻപത്തെ ലെക്ച്ചറിൽ കണ്ട read delim എന്നതിന് സമാനമാണ് csv ഫയലുകളെ ടേബിൾ ഫോർമാറ്റിൽ റീഡ് ചെയ്യുകയും അതിൽ നിന്ന് ഒരു ഡാറ്റ ഫ്രെയിം സൃഷ്ടിക്കുകയും ചെയ്യുന്നു അതായത് ഇവിടെ സിൻടാക്സ് read csv യും ഫംഗ്ഷന്റെ ഇൻപുട്ടുകൾ ഫയലും റോ നെയിമും ആണ് അതായത് നിങ്ങൾ ഡാറ്റ റീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫയലിന്റെ പേരാണ് ലെ യഥാർത്ഥ റോയ്യുടെ പേരുകൾ നൽകുന്ന വെക്റ്ററാണ് റോനെയിംസ് അത് ഒരൊറ്റ സംഖ്യയും ആകാം ഇനി നമുക്ക് ഡേറ്റാ ലോഡ് ചെയ്യുന്നതെങ്ങനെ എന്നു നോക്കാം നിങ്ങളുടെ നിലവിലെ വർക്കിംഗ് ഡയറക്ടറിയിൽ 'nyc csv' ഉണ്ടെന്ന് കരുതുക കമാൻഡ് എന്ന് പറയുന്നത് read csv ഫങ്ക്ഷനിൽ le യുടെ ഫയൽ നെയിം ഡബിൾ കോട്സിൽ കൊടുക്കുക ഇപ്പോൾ ഈ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്തുകഴിയുമ്പോൾ അത് ഒരു ഡാറ്റ ഫ്രെയിം ഒബ്ജക്റ്റ് nyc സൃഷ്ടിക്കും ഇനി ഡാറ്റ എങ്ങനെ കാണാമെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ view ഫംഗ്ഷൻ ഡാറ്റാഫ്രേമിനെ ടാബുലാർ ഫോമിൽ ഡിസ്പ്ലേ ചെയ്യിക്കും ഔട്ട്പുട്ട് എങ്ങനെ കാണപ്പെടുന്നുവെന്ന് കാണിക്കുന്ന ഒരു ചെറിയ സ്നിപ്പെറ്റ് ചുവടെയുണ്ട് അതായത് 5 വേരിയബിളുകളായി പ്രൈസ്ഫുഡ് ഡിക്കോർ സർവീസ് ഈസ്റ്റ് എന്നിവയുണ്ട് അതുപോലെ നിങ്ങളുടെ ഡാറ്റസെറ്റ് ശരിക്കും വലുതാണെന്നും മുഴുവൻ ഡാറ്റയും കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും കരുതുക അപ്പോൾ നിങ്ങൾക്ക് ഹെഡ് അല്ലെങ്കിൽ ടെയിൽ ഫംഗ്ഷൻ ഉപയോഗിക്കാം ഒരു ഡാറ്റ ഫ്രെയിമിലെ ആദ്യ 6 വരികൾ മാത്രം ഹെഡ് നിങ്ങൾക്ക് നൽകും കൂടാതെ ഡാറ്റ ഫ്രെയിമിലെ അവസാന 6 വരികൾ ടെയിൽ നിങ്ങൾക്ക് നൽകും അതിനാൽ ഇപ്പോൾ ലോഡ് ചെയ്ത ഡാറ്റാ സെറ്റിന്റെ വിവരണം നോക്കാം നിങ്ങൾ ഇതിനകം ലോഡ് ചെയ്ത ഡാറ്റാ സെറ്റ് കണ്ടു പക്ഷേ അതിന്റെ ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഇതുവരെ അറിയില്ല ന്യൂയോർക്ക് നഗരത്തിലെ റെസ്റ്റോറന്റുകളിലെ മെനു പ്രൈസിംഗിനെ കുറിച്ചുള്ളതാണ് ഡേറ്റ ഇതിൽ എന്റെ ഡിപെൻഡന്റ് വേരിയബിൾ ഡിന്നറിന്റെ വിലയാണ് മറ്റ് 4 ഇൻഡിപെൻഡന്റ് വേരിയബിളുകളും അവിടെ ഉണ്ട് ഫുഡ് അതിലെ ഇൻഡിപെൻഡന്റ് വേരിയബിളുകളിലൊന്നാണ് ഭക്ഷണത്തിന്റെ റേറ്റിങ്ങും ഉണ്ട് അടുത്തതായി ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഡെക്കർ അലങ്കാരമാണ് ആണ് അതിന്റെ കസ്റ്റമർ റേറ്റിങ്ങും ഉണ്ട് തുടർന്ന് എനിക്ക് സർവീസും അതിന്റെ കസ്റ്റമർ റേറ്റിംഗും അവസാന ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയി ഈസ്റ്റും ഉണ്ട് അതായത് east എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റെസ്റ്റോറന്റ് നഗരത്തിന്റെ കിഴക്ക് ഭാഗത്താണെന്നോ പടിഞ്ഞാറ് ഭാഗത്താണോ സ്ഥിതിചെയ്യുന്നത് എന്നതാണ് അതിനാൽ ഇപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം വിലയും മറ്റ് 4 ഇൻഡിപെൻഡന്റ് വേരിയബിളുകളും ഉപയോഗിച്ച് ഒരു ലീനിയർ മോഡൽ നിർമ്മിക്കുക എന്നതാണ് ഒരു മോഡൽ നിർമ്മിക്കുന്നതിനുമുമ്പ് ഡാറ്റ വേരിയബിളുകൾക്കിടയിൽ ഇന്റേർഡിപെൻഡൻസി കാണിക്കുന്നുണ്ടോ എന്ന് പറയാം അതിനാൽ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് "pair wise scatter പ്ലോട്ട് നമ്മൾ മുമ്പ് ഉപയോഗിച്ച അതേ ഫംഗ്ഷൻ പ്ലോട്ടാണ് നമ്മൾ ഇവിടെയും ഉപയോഗിക്കാൻ പോകുന്നത് ഇപ്പോൾ എനിക്ക് ഒന്നിലധികം വേരിയബിൾ ഉള്ളതിനാൽ ഞാൻ ഡാറ്റ ഫ്രെയിമിനെ ഇൻപുട്ടായി നൽകാൻ പോകുന്നു കൂടാതെ ഞാൻ ജോഡി തിരിച്ചുള്ള സ്കാറ്റർ പ്ലോട്ട് എന്ന് ഒരു ഹെഡിങ്ങും നൽകുന്നു എന്റെ വലതുവശത്തതായി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഔട്ട്പുട്ടാണ് എല്ലാ വേരിയബിളുകളും ഡയഗണലുകളിലുടനീളം വ്യാപിച്ചിരിക്കുന്നത് നമുക്ക് കാണാം അതിനാൽ ഒരാൾ ഇടത്തുനിന്ന് വലത്തേക്ക് നീങ്ങുമ്പോൾ എന്റെ ഇടതുവശത്തുള്ള വേരിയബിളുകൾ y ആക്സിസിലും മുകളിൽ അല്ലെങ്കിൽ താഴെയുള്ള വേരിയബിളുകൾ x ആക്സിസിലും ആയിരിക്കും അതിനാൽ നമുക്ക് ആദ്യത്തെ റോ എടുക്കാം അതായത് എനിക്ക് ഇടതുവശത്തായി പ്രൈസ് ഉണ്ട് അതായത് പ്രൈസ് y യിലും ഫുഡ് താഴെയും ആണ് അതായത് ഫുഡ് x ആക്സിസിൽ വരുന്നു ഇപ്പോൾ ഇത് പ്രൈസും ഫുഡും തമ്മിലുള്ള പ്ലോട്ടാണ് അതുപോലെ തന്നെ എനിക്ക് പ്രൈസും ഡികോറും പ്രൈസും സർവീസും പ്രൈസും ഈസ്റ്റും തമ്മിലുള്ള പ്ലോട്ടുകളും ഉണ്ട് ഞാൻ അടുത്ത വരിയിലേക്ക് പോകുന്നു അവിടെ ഫുഡ് y ആക്സിസിലാണ് അതിനാൽ നിങ്ങൾ ഫുഡും ഡികോറും എടുക്കുകയാണെങ്കിൽ ഡാറ്റ ക്രമരഹിതമായി ചിതറിക്കിടക്കുന്നതായി കാണാം അതിനാൽ ഇത് കോറിലേഷൻ പാറ്റേണുകളൊന്നും കാണിക്കുന്നില്ല അതേസമയം ഫുഡും സർവീസും തമ്മിലുള്ള പ്ലോട്ടുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ ശക്തമായ പാറ്റേണുകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇനി ഇവയ്ക്കെല്ലാമുള്ള കോറിലേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം കോറിലേഷൻ പരസ്പരബന്ധം ഒരു ഫങ്ക്ഷൻ ആണ് പ്രൊഫസർ ശങ്കർ ഇത് എങ്ങനെ കണ്ടു പിടിക്കാം എന്നത് നിങ്ങള്ക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിനാൽ cor എന്നത് R ലുള്ള ഫംഗ്ഷനാണ് ഇപ്പോൾ എല്ലാ വേരിയബിളുകളുമുള്ള ഡാറ്റാസെറ്റ് എനിക്ക് നൽകേണ്ടതുണ്ട് അതുപോലെ പോലെ റൌണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എത്ര ഡെസിമൽ പോയിന്റുകൾ റൌണ്ട് ഓഫ് ചെയ്യണം എന്നാണ് റൌണ്ട് ചെയ്യുന്നതിനായി ഞാൻ കോറിലേഷൻ ഫങ്ക്ഷന് ഇൻപുട്ട് ആയി നൽകുകയും 3 എന്ന് പറയുകയും ചെയ്താൽ അതിനർത്ഥം സംഖ്യകളെ 3 ഡെസിമൽ പ്ലേസുകളിൽ റൌണ്ട് ഓഫ് ചെയ്തു എന്നാണ് ഇനി ഔട്പുട്ടുകളെ എങ്ങനെ ഇന്റർപ്രെട്ട് ചെയ്യാം എന്ന് നോക്കാം അതായത് പ്രൈസും പ്രൈസും തമ്മിലുള്ള കോറിലേഷൻ എല്ലായ്പ്പോഴും 1 ആയിരിക്കും അടുത്തതായി ഫുഡും ഡികോറും നോക്കാം ഫുഡും ഡികോറും തമ്മിലുള്ള കോറിലേഷൻ 0 5 ആണ് അത് വളരെ കുറവാണ് എന്നാൽ ഫുഡും സർവീസും നോക്കിയാൽ അത് 0 8 ന് തുല്യമാണ് അത് വളരെ ഉയർന്നതാണ് അതിനാൽ ഫുഡും സർവീസും പരസ്പരബന്ധിതമാണെന്ന് നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഫൈനൽ മോഡൽ നിർമ്മിക്കുമ്പോൾ ഇവയിലൊന്ന് ഉപേക്ഷിക്കാൻ കഴിയും അതിനാൽ നമ്മൾ ഇപ്പോൾ രണ്ടിൽ ഏതാണ് ഉപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അടുത്തതായി നമുക്ക് മോഡൽ ബിൽഡിംഗിലേക്ക് പോകാം അതിനാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ ഡിപെൻഡന്റ് വേരിയബിൾ ഇവിടെ ഒരെണ്ണം മാത്രമാണ് അത് y കൊണ്ട് സൂചിപ്പിക്കുന്നു എനിക്ക് നിരവധി ഇൻഡിപെൻഡന്റ് വേരിയബിളുകൾ ഉണ്ട് അവ xi ആണ് i യുടെ വാല്യൂ 1 മുതൽ p വരെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ p എന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിളുകളുടെ ആകെ എണ്ണമാണ് ഒന്നിലധികം ഇൻഡിപെൻഡന്റ് വേരിയബിളുകൾ ഉപയോഗിച്ച് ഈ സമവാക്യം എങ്ങനെ എഴുതാമെന്ന് നോക്കാം ഇവിടെ ŷ എന്നത് ഇപ്പോൾ പ്രവചിച്ച മൂല്യമാണ് β̂₀ ഇത് ഇന്റർസെപ്റ്റാണ് പിന്നെ β̂1x1 β̂2 x2 അങ്ങനെ β̂p xpവരെ ഉണ്ട് അതിൽ β̂₀ ഇന്റർസെപ്റ്റും β1 ഹാറ്റ് β2 ഹാറ്റ് etc എന്നത് സ്ലോപ്പും ആണ് ഇവിടെ ε എറർ ആണ് OLS ലെ മുമ്പത്തെ പ്രഭാഷണങ്ങളിൽ നിന്ന് നിങ്ങൾ ഇതിനെക്കുറിച്ചു ഓർമിക്കാൻ ശ്രെമിക്കുക അനുമാനം എന്തെന്നാൽ എറർ നിലനിൽക്കുന്നത് ഡിപെൻഡന്റ് വേരിയബിളിന്റെ അളവിലാണ് അല്ലാതെ ഇൻഡിപെൻഡന്റ് വേരിയബിളിലല്ല അതിനാൽ ഇൻഡിപെൻഡന്റ് വേരിയബിളുകൾ എറർ ഇല്ലാത്തവയാണ് അതേസമയം y യുടെ അളവിൽ എപ്പോഴും ചില ഏററുകൾ ഉണ്ട് അതിനാൽ ഇവിടെ ε അജ്ഞാതമായ ഒരു അളവ് ആണ് അതിനു സീറോ മീനും കുറച്ചു വേരിയൻസും ഉണ്ട് അതായത് നിരീക്ഷണം ഏതായാലും സമവാക്യം ഇങ്ങനെയാണ് എഴുതുന്നത് അടുത്തതായി നമുക്ക് ഒരു മോഡൽ നിർമ്മിക്കാം മൾട്ടിപ്പിൾ ലീനിയർ മോഡൽ നിർമ്മിക്കാനുള്ള പ്രവർത്തനം യൂണിവേരിയേറ്റ് ഏകീകൃത കേസിൽ ഉപയോഗിച്ചതിന് തുല്യമാണ് ഇവിടെയും ഞാൻ lm ഫങ്ക്ഷൻ ഉപയോഗിക്കാൻ പോകുന്നു lm ഫുങ്ക്ഷന് രണ്ട് പരാമീറേറ്റർസ് ആണ് ഉള്ളത് ഫോർമുലയും ഡാറ്റയും യൂണിവേരിയേറ്റ് കേസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവിടെ സിന്റാക്സ് അല്പം വ്യത്യസ്തമാണ് അതായത് ഇവിടെ ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട് ഒരു ടിൽഡ് ചിഹ്നമുണ്ട് കൂടാതെ എനിക്ക് എത്ര ഇൻഡിപെൻഡന്റ് വേരിയബിളുകളുണ്ടോ അവയെ ഒരു ചിഹ്നം ഉപയോഗിച്ച് വേർതിരിക്കാൻ പോകുന്നു അതായത് എന്റെ ഡാറ്റയിൽ എനിക്ക് 2 ഇൻഡിപെൻഡന്റ് വേരിയബിളുകൾ ഉണ്ടെന്ന് വിചാരിക്കുക ഇവിടെ ഞാൻ ആ 2 ഇൻഡിപെൻഡെന്റ് വേരിയബിളുകളും ഉപയോഗിച്ച് ഡിപെൻഡന്റ് വേരിയബിളിനെ റിഗ്രസ് ചെയ്യാൻ പോകുന്നു അതായത് ആ 2 ഇൻഡിപെൻഡെന്റ് വേരിയബിളുകളെ ഒരു ചിഹ്നത്താൽ വേർതിരിക്കേണ്ടതുണ്ട് അടുത്തതായി നമ്മുടെ ഡാറ്റാസെറ്റ് ആയ nyc ഇൽ ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഇവിടെ ഞാൻ വീണ്ടും lm ഫങ്ക്ഷൻ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ഡാറ്റ nyc യിൽ നിന്ന് ഞാൻ ഈ വേരിയബിളുകൾ എടുത്തതുകൊണ്ട് ഞാൻ ഫുഡ് ഡിക്കോർ സർവീസ് ഈസ്റ്റ് എന്നിങ്ങനെയുള്ള 4 ഇൻപുട്ട് വേരിയബിളുകളുമായി പ്രൈസ്സിനെ വീണ്ടും റിഗ്രെസ്സ് ചെയ്യാൻ പോകുന്നു അതിനാൽ നിങ്ങൾക്ക് ചിഹ്നത്തിലൂടെ ഇൻഡിപെൻഡെന്റ് വേരിയബിളുകളെ വേർതിരിക്കാനാകും ഇപ്പോൾ എല്ലാ 4 ഇൻപുട്ടുകൾക്കും റിഗ്രസ് വില പറയാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നെങ്കിൽ സമാന കമാൻഡ് എഴുതാൻ മറ്റൊരു വഴിയുണ്ട് ഇവിടെ ഞാൻ റിഗ്രസ് പ്രൈസ് പറയുന്നു തുടർന്ന് ഞാൻ ഒരു ടിൽഡ് ചിഹ്നം നൽകുന്നു തുടർന്ന് ഞാൻ ഒരു ഡോട്ട് നൽകുന്നു അതായത് ഡാറ്റ nyc യിൽ നിന്നുള്ള എല്ലാ ഇൻപുട്ട് വേരിയബിളുകളുമായും വില റിഗ്രസ് ചെയ്യുക എന്നാണ് ഇതിനർത്ഥം നിങ്ങൾ റിഗ്രഷനായി എല്ലാ ഇൻപുട്ട് വേരിയബിളുകളും നൽകാൻ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതി ഉപയോഗിക്കാം എന്നാൽ നിങ്ങള്ക്ക് വേരിയബിളുകളുടെ സബ്സെറ്റിന്റെ ഒരു മോഡൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേരിയബിൾസിനെ ചിഹ്നം ഉപയോഗിച്ച് വ്യക്തമായി വേർതിരിച്ചു ഉപയോഗിക്കാം ഇത് വീൺടും ആവർത്തിക്കും ഇതാണ് എന്റെ സമവാക്യത്തിന്റെ രൂപം അപ്പോൾ നമുക്ക് സമ്മറി എങ്ങനെ വ്യാഖ്യാനിക്കാമെന്ന് നോക്കാം അതിനാൽ ഈ മോഡൽ നിർമ്മിച്ചതിനുശേഷം നമുക്ക് അതിന്റെ സമ്മറി നോക്കാം അതായത് ഈ സ്നിപ്പെറ്റ് നിങ്ങൾക്ക് ഒരു സമ്മറി മാത്രമാണ് നൽകുന്നത് ലീനിയർ റിഗ്രെഷന്റെ ആദ്യ ലെക്ചർ നിങ്ങൾ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രെമിച്ചാൽ ഇവിടെ ഒരോ ലൈനും എന്താണ് അര്ഥമാക്കുന്നതെന്നു നമുക്ക്മനസിലാക്കാൻ കഴിയുന്നതാണ് ആദ്യ ലൈനിൽ നമുക്ക് ഫോർമുല ഉണ്ട് അടുത്ത ലൈനിൽ റെസിഡ്യൂൾസും അവയുടെ 5 പോയിന്റ് സമ്മറിയും ഉണ്ട് തുടർന്ന് നമുക്ക് കോഎഫിഷിയെന്റ്സും കാണിച്ചിട്ടുണ്ട് ഇവിടെ ഇന്റർസെപ്റ്റ് ഫുഡ് ഡെക്കർ സർവീസ് ഈസ്റ്റ് എന്നിവയാണ് ഈ വേരിയബിളുകളുടെ കോഎഫിഷെൻറ്സ് അതിനാൽ ഈ കോഎഫിഷിയെന്റുകളിൽ ഓരോന്നിനുംഞാൻ ഒരു എസ്റ്റിമേറ്റ് മൂല്യം നൽകിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ചില വേരിയന്സുമായി ബന്ധപ്പെട്ട ഒരു t മൂല്യം നിങ്ങൾ p മൂല്യം നോക്കുകയാണെങ്കിൽ ഇത് സ്റ്റാൻഡേർഡ് എററും ചില പ്രോബബിലിറ്റി മൂല്യവും അടിസ്ഥാനമാക്കിയുള്ള എസ്റ്റിമേറ്റ് അനുപാതമാണ് അതിനാൽ 0 05 ആയ നമ്മുടെ സിഗ്നിഫിക്കൻസ് ലെവലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്റർസെപ്റ്റിനുള്ള p മൂല്യം വളരെ കുറവാണ് അതിനാൽ മോഡലിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട പദങ്ങളിലൊന്നാണ് ഇന്റർസെപ്റ്റ് എന്ന് ഇത് നിങ്ങളോട് പറയുന്നു ഫുഡിനും ഡെക്കോറിനുമുള്ള പി മൂല്യവും 0 05 ൽ താഴെയാണ് അതിനാൽ നമ്മൾ അവയെ നിലനിർത്തേണ്ടതുണ്ട് അവ 0 യിൽ നിന്ന് എത്രമാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് stars നിങ്ങളോട് പറയുന്നു അതേസമയം സർവീസിന്റെ p മൂല്യം നോക്കുകയാണെങ്കിൽ ഇത് 0 9945 ആണ് ഇത് നമ്മുടെ സിഗ്നിഫിക്കന്റ് ലെവലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ഉയർന്നതാണ് അതിനാൽ സർവീസ് പ്രാധാന്യമുള്ളതല്ലെന്നും നമ്മൾ കണക്കാക്കിയ മൂല്യം നോക്കിയാൽ അത് 0 ക്കു വളരെ അടുത്താണെന്നും മനസിലാക്കാം അതിനാൽ പ്രൈസ് വിശദീകരിക്കുന്നതിൽ സർവീസ് ഒരു പ്രധാന പദമല്ലെന്ന് ഇതിൽ നിന്നും നമ്മുക്ക് മനസിലാക്കാം അതുപോലെ ഈസ്റ്റിന്റെ പി മൂല്യം നോക്കിയാൽ അത് ഫുഡിന്റെയും ഡെക്കറിന്റെയും പി വാല്യൂവിനേക്കാളും കുറവല്ല എന്ന് മനസ്സിലാക്കാം ഇത് ഓക്കേ ആണ് അതുപോലെ ഇവിടെ ഒരു സിഗ്നിഫിക്കന്റ് സ്റ്റാർ മാത്രെമേ ഉള്ളു അതായതു ഇതിന്റെ സിഗ്നിഫിക്കന്റ് ലെവൽ 025 അല്ലെങ്കിൽ 01 ആണ് അതുകൊണ്ടു വേണമെങ്കിൽ എനിക്ക് ഈ പദം നിരസിക്കാം എങ്കിലും ഇവിടെ ഞാൻ ഇത് നിലനിർത്തുകയാണ് അതുപോലെ അടുത്തതായി നമുക്ക് r സ്ക്വയേർഡ് മൂല്യം നോക്കാം R സ്ക്വയേർഡ് മൂല്യം 0 628 ഉം അഡ്ജസ്റ്റഡ് r സ്ക്വയർ 0 619 ഉം f സ്റ്റാറ്റിസ്റ്റിക് മൂല്യം ശരിക്കും ഉയർന്നതും അത് 68 76 ഉം ആണ് അതിനാൽ റെഡ്യൂസ്ഡ് മോഡലുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ഫുൾ മോഡൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നുവെന്നും ആ പെർഫോമൻസ് നിലനിർത്തുന്നു എന്നും പറയാം അതിനാൽ സർവീസ് എന്ന പദം പ്രാധാന്യമർഹിക്കുന്നില്ലെന്ന് നമ്മൾ മനസിലാക്കിയിട്ടുള്ളതിനാൽ സർവീസ് ഒഴിവാക്കി ഒരു പുതിയ മോഡൽ നിർമ്മിക്കാം അടുത്തതായി ഞാൻ സർവീസ് ഒഴിവാക്കി ഒരു പുതിയ മോഡൽ നിർമ്മിക്കുകയും അതിനെ nycmod 2 എന്ന് വിളിക്കുകയും ചെയ്യുന്നു ഇനി നമുക്ക് കോയേഫിഷെന്റിന്റെ സെക്ഷനിലേക്കു പോകാം ഇവിടെ സർവീസ് വേരിയബിൾ നീക്കം ചെയ്യുന്നതിന് മുമ്പും ശേഷവും എസ്റ്റിമേറ്റുകൾ കാര്യമായി വ്യത്യാസപ്പെട്ടിട്ടില്ല അതിനാൽ സർവീസ് വളരെ പ്രധാനമല്ലെന്ന് ഇത് നമ്മളോട് പറയുന്നു അതുപോലെ നിങ്ങൾ വീണ്ടും p വാല്യൂ നോക്കിയാൽ ഈ വേരിയബിളുകൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണെന്നും ഇവിടെ r സ്ക്വയേഡ് വാല്യൂ താഴെ ആണെന്നും കാണാം അതായത് സർവീസ് നീക്കം ചെയ്യുന്നതിന് മുമ്പും ശേഷവുമുള്ള r സ്ക്വയേർഡ് വാല്യൂവിൽ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല പ്രൈസിലെ വ്യത്യാസം വിശദീകരിക്കുന്നതിന് സർവീസ് നമ്മളെ സഹായിക്കുന്നില്ല എന്നതിന്റെ ഒരു സൂചനയാണിത് ഇവിടെ അഡ്ജസ്റ്റഡ് r സ്ക്വയർ അല്പം മാറിയിട്ടുണ്ട് കാരണം നമ്മൾ ഒരു വേരിയബിൾ ഒഴിവാക്കിയതിനാൽ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ വന്ന മാറ്റം കൊണ്ടാണിത് വീണ്ടും എഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ശരിക്കും വളരെ ഉയർന്നതാണ് ഇതിൽനിന്ന് ഫൂട്ട്ഡെക്കർഈസ്റ്റ് എന്നിവകൊണ്ടുള്ള പൂർണ്ണമായ മോഡൽ നിങ്ങളുടെ ഇന്റർസെപ്റ് മാത്രമുള്ള റെഡ്യൂസ്ഡ് മോഡലിനെ അപേക്ഷിച്ച് മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നു സ്കാറ്റർ പ്ലോട്ടിനെക്കുറിച്ച് ഓർത്തെടുത്താൽ അവിടെ ഫുഡും സർവീസും തമ്മിൽ ഉയർന്ന ബന്ധമുണ്ടെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ് അതുപോലെ ഇപ്പോൾ നമ്മൾ സർവീസ് ഒഴിവാക്കി ഒരു മോഡൽ നിർമ്മിച്ചു ഇപ്പോൾ നമുക്ക് സർവീസ് നിലനിർത്തിക്കൊണ്ട് ഫുഡ് ഒഴിവാക്കി ഒരു മോഡൽ നിർമ്മിക്കാം ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഫുഡ് ഒഴിവാക്കി ഇനി നമുക്ക് ഈ സമ്മറി ഒന്ന് നോക്കാം ഈ സമ്മറി പരിശോധിച്ചാൽ എല്ലാ മൂല്യങ്ങളും പ്രാധാന്യമർഹിക്കുന്നുവെന്ന് p വാല്യൂ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിലും r സ്ക്വയേഡ് വാല്യൂ നോക്കിയാൽ അത് 0 628 ൽ നിന്ന് 0 588 ആയി കുറഞ്ഞു എന്ന് കാണാം ഇത് ഒരു വലിയ കുറവാണ് മാത്രമല്ല അഡ്ജസ്റ്റഡ് r സ്ക്വയർ പോലും കുറഞ്ഞു അതിനാൽ സർവീസിന് ഫുഡിനെക്കാൾ പ്രാധാന്യം കുറവാണെന്നും ഫുഡ് സർവീസിനേക്കാൾ മികച്ച രീതിയിൽ പ്രൈസിനെ വിശദീകരിക്കുന്നുണ്ടെന്നും ഇത് നിങ്ങളോട് പറയുന്നു അതിനാൽ r സ്ക്വയേർഡ് വാല്യൂവും സ്കാറ്റർ പ്ലോട്ടുകളും ലീനിയർ മോഡലുമായി മുന്നോട്ട് പോകാൻ നമ്മളോടു പറയുന്നു അവിടെ റെസിഡ്യൂവൽ അനാലിസിസ് നടത്തി നമ്മുടെ അസംഷനുകളിൽ ഏററുകൾ ഉണ്ടോയെന്ന് വെരിഫൈ ചെയ്യേണ്ടതാണ് ഈ ടാസ്ക് നിങ്ങള്ക്ക് ചെയ്യാനുള്ള ഒരു എക്സർസൈസ് ആയി തരികയാണ് നിങ്ങൾ ഇത് ചെയ്തുനോക്കി എല്ലാ അസംപ്ഷൻസും പരിശോധിക്കുക